കോംപ്ലക്സ് ഫോം ഓഫ് ഫോറിയർ സീരീസ് അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II നെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇത് ഫോറിയർ സീരീസിന്റെ കോംപ്ലക്സ് രൂപത്തെക്കുറിച്ചുള്ള ലെക്ചർ നമ്പർ 40 ആണ് അതിനാൽ ഇന്ന് ഈ ലെക്ചറിൽ നമ്മൾ മറ്റൊരു ഫോം ചർച്ച ചെയ്യും അല്ലെങ്കിൽ കോംപ്ലക്സ് രൂപത്തിൽ ഫോറിയർ സീരീസ് എഴുതുന്നതിനുള്ള അല്പം വ്യത്യസ്തമായ രീതി നമുക്ക് പറയാം കൂടാതെ ഫൊറിയർ സീരീസിന്റെ കോംപ്ലക്സ് രൂപത്തിനായുള്ള പാർസേവലിന്റെ ഐഡന്റിറ്റിയുടെ Parseval's identity രൂപം എന്തായിരിക്കുമെന്നും നമ്മൾ പരിശോധിക്കും അതിനാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത സീരിസായിരുന്നു ഇത് f ഒരു ഇന്റഗ്രൽ അല്ലെങ്കിൽ തുടർച്ചയായ പ്രവർത്തനമാണെങ്കിൽ നമുക്ക് അതിന്റെ ഫോറിയർ ശ്രേണി എഴുതാം കൂടാതെ ഈ anS bnS എന്നിവയെ ഫോറിയർ കോഫിഫിഷ്യന്റുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ an എന്നതിന്റെ പദപ്രയോഗം നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്അത് πf cos nx dx ആണ് കൂടാതെ bn ന് അത് πf sin nx dx ആണ് n എന്നത് 1 2 3 മുതലായവയ്ക്ക് തുല്യമാണ് ഇപ്പോൾ ഫോറിയർ സീരീസിന്റെ കോംപ്ലക്സ് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമ്മൾ Euler ഫോർമുലകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഫൊറിയർ സീരീസിലും ഫൊറിയർ കോഫിഫിഷ്യന്റുകളിലും cos nx പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ എക്സ്പോണൻഷ്യൽ ഫോർമുലയുടെ സഹായത്തോടെ cos nx മാറ്റിസ്ഥാപിക്കാം einxe inx2 അതുപോലെ sin nx ന് നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോർമുലയുണ്ട് einx e inx2i അതിനാൽ ഇപ്പോൾ നമുക്ക് ഫോറിയർ സീരീസിലെ cos nx sin nx എന്നിവ മാറ്റിസ്ഥാപിക്കാം a02n1aneinxe inx2einx e inx2i cos nx നെ അതിന്റെ Euler ഫോർമുല ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുമ്പോൾ sin nx നു പകരം einxe inx2 ആക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ചില ലഘൂകരണങ്ങൾ ചെയ്യാനാകും കാരണം രണ്ട് പദങ്ങളിലും einx ഉണ്ട് അതിനാൽ നമുക്ക് einx കോമൺ എടുക്കാം കൂടാതെ 12 ഘടകം സാധാരണമായിരിക്കും തുടർന്ന് ഈ പദത്തിൽ നിന്നും നമുക്ക് ഗുണിക്കുകയും വിഭജിക്കുകയും ചെയ്യുമ്പോൾ bn2i by i − ചിഹ്നം ഉണ്ടാകും കൂടാതെ i തവണ bn 2 ഉണ്ടാകും കാരണം അത് bn2i ആയിരുന്നു കൂടാതെ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലും i കൊണ്ട് ഗുണിച്ചാൽ അതിനാൽ അത് ibn ആയിരിക്കും തുടർന്ന് 2 തവണ i2−1 അതായത് ഇവിടെ −2 അതിനാൽ −2 ഇവിടെ പരിഗണിക്കപ്പെടുന്നു അതുപോലെ രണ്ടാമത്തേതിന് നമ്മൾക്ക് e inx ഉണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും e inx ഉണ്ട് അതിനാൽ നമ്മൾ വീണ്ടും e inx കോമൺ എടുക്കും കൂടാതെ 12 ഫാക്ടർ കൂടി എടുക്കും പിന്നെ സമാനമായ ക്രമീകരണം ഇവിടെയും ചെയ്യാവുന്നതാണ് എന്നാൽ ഇത്തവണ ചിഹ്നം ഇതിനകം ഉണ്ടായിരുന്നതിനാൽ അത് യാന്ത്രികമായി അടയാളം വരും അതിനാൽ ഈ സീരിസിന്റെ രൂപം നമുക്ക് കോംപ്ലക്സ് സംഖ്യകളിൽ ഉണ്ട് അതിനാൽ ആദ്യത്തെ കോംപ്ലക്സ് സംഖ്യയായ 12 an−i bn ഒരു പുതിയ പേര് cn എന്നിവയ്ക്കായി നമ്മൾ ഇവിടെ സജ്ജമാക്കുകയാണെങ്കിൽ കൂടാതെ ഗുണകങ്ങളുടെ രണ്ടാമത്തെ കോമ്പിനേഷനും നമ്മൾ അതിനെ kn എന്ന് വിളിക്കുകയാണെങ്കിൽ 12 anibn അതിനാൽ ഈ രണ്ട് പുതിയ നമ്പറുകൾ kn ഉം cn ഉം ഉള്ളതിനാൽ നമുക്ക് ഇപ്പോൾ ഈ ഫോറിയർ സീരീസ് താഴെ എഴുതാം അതിനാൽ f ന്റെ ഫൊറിയർ സീരിസ് c0n1cneinxkne inx നമ്മൾ a02 c0 ആയി നിർവചിച്ചിട്ടുണ്ട് അതും നേരിട്ട് വരുന്നു ഈ നിർവചനം അവിടെ b0 സ്വാഭാവികമായും 0 ആയി സജ്ജീകരിക്കും കാരണം b0 0 ആണ് നമ്മൾ b1 ഉപയോഗിച്ച് bn തുടങ്ങുന്നു അതിനാൽ ഇവിടെ വീണ്ടും 12 a0 c0 ആകും രണ്ടാമത്തെ ഗുണകം cn ആണ് തുടർന്ന് ഇവിടെ മൂന്നാം സ്ഥാനത്ത് നമുക്ക് kn ഉണ്ട് അതിനാൽ ഈ ഗുണകങ്ങളുള്ള cn ഉള്ള 12 an−i bn ഉള്ള ഫൊറിയർ സീരീസിന്റെ കോംപ്ലക്സ് രൂപമാണിത് കൂടാതെ cn ന്റെ അവസാന പദപ്രയോഗം നമ്മൾ കൂടുതൽ ലളിതമാക്കും തുടർന്ന് വീണ്ടും ഫോറിയർ സീരീസിന്റെ ഈ രൂപത്തിനായി കുറച്ച് കൂടുതൽ ലളിതവൽക്കരണങ്ങൾ നടക്കും അതിനാൽ നമുക്ക് cn 12 an−i bn ഉണ്ട് f cosnx ന്റെ അടിസ്ഥാനത്തിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം f sin nx ന്റെ അടിസ്ഥാനത്തിലുള്ള bn നമുക്കറിയാം

അതിനാൽ നമുക്ക് cn 12 an−i bn ഉണ്ട് കൂടാതെ നമുക്ക് f ന്റെ അടിസ്ഥാനത്തിൽ cn ന്റെ അവസാന എക്സ്പ്രഷൻ 12π πfxe inxdx ഉണ്ട് അതുപോലെ നമുക്ക് ഇത് kn നും ചെയ്യാം കൂടാതെ kn 12 ani bn അതുപോലെ നമുക്ക് kn 12π πfxeinxdx ഈ e inx ഇപ്പോൾ einx ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതാണ് kn ന്റെ ഒരേയൊരു വ്യത്യാസം ഒടുവിൽ നമുക്ക് ഇവിടെ ഇന്റഗ്രേഷനിൽ f einx ഉണ്ടാകും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് cn എക്സ്പ്രഷനിൽ e inx കൂടാതെ kn നു അത് einx ആണ് അതിനാൽ വ്യത്യാസം ചിഹ്നത്തിൽ മാത്രമാണ് അതിനാൽ നമുക്ക് kn c n എന്ന് പറയാം ഇവിടെ n എന്നത് മാറ്റി n ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായി kn ലഭിക്കും അതിനാൽ നമുക്ക് ഇവിടെ kn ഉം cn ഉം തമ്മിൽ ബന്ധം ഉണ്ട് ഇപ്പോൾ ഇത് വീണ്ടും ഉപയോഗിച്ച് നമ്മൾ ഫോറിയർ സീരീസിലേക്ക് മടങ്ങുകയാണ് അതിനാൽ ഫോറിയർ സീരീസ് c0n1cnkne inx ആണ് അതിനാൽ kn നെ c n ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം തുടർന്ന് f നെ ഈ കോംപാക്റ്റ് രൂപത്തിൽ ∞ മുതൽ ∞ വരെയുള്ള സംഗ്രഹം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം കാരണം kn എന്നത് c n അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ രൂപത്തിൽ n1 ആയിരിക്കുമ്പോൾ നമുക്ക് c1 ഉണ്ട് എന്നാൽ അതേ സമയം നമുക്ക് c 1 ഉണ്ട് അപ്പോൾ നമുക്ക് c2 ഉണ്ട് ഈ സ്ഥലത്ത് നമുക്ക് c 2 ഉണ്ട് അതിനാൽ ഈ എന്നിവയെല്ലാം ഇവിടെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു കൂടാതെ c0 ഇതിനകം മുൻവശത്തുണ്ട് അതിനാൽ ഈ കോംപാക്റ്റ് രൂപത്തിൽ നമുക്ക് നെഗറ്റീവ് പൂർണ്ണസംഖ്യകളും പോസിറ്റീവ് പൂർണ്ണസംഖ്യകളും ഉണ്ട് അതിനാൽ c n cn einx എന്നിവയും നെഗറ്റീവ് മൂല്യങ്ങൾ സ്വയമേവ പരിപാലിക്കും നെഗറ്റീവ് മൂല്യങ്ങൾക്ക് നമുക്ക് cn ഉണ്ട് കൂടാതെ സ്വപ്രേരിതമായി einx n ഒരു നെഗറ്റീവ് സംഖ്യയായിരിക്കുമ്പോൾ ഇത് നഷ്ടപരിഹാരം നൽകും അതിനാൽ ഈ ഫോം ഈ കോംപാക്റ്റ് ഫോമിൽ എഴുതിയിരിക്കുന്നതിന് സമാനമാണ് f ∼ n ∞cneinx ഇതിൽ n −∞ മുതൽ ∞ വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ n 0 ആയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ c0e0 1 ആണ് അതിനാൽ നമുക്ക് 0 ന് തുല്യമായ n ന് c0 മാത്രമേ ഉള്ളൂ ഈ പദം ഈ അനന്തമായ തുകയിൽ ഉൾപ്പെടുത്തും അതിനാൽ ഇപ്പോൾ cn എന്നാൽ cn 12π πfxe inxdx തുടങ്ങിയവ ആണ് അതിനാൽ ഫൊറിയർ സീരീസിന്റെ കോംപാക്ട് രൂപമാണിത് ആ cos sin പദങ്ങൾ ഉള്ളതിനേക്കാൾ വളരെ മികച്ചതാണ് ഇത് വളരെ കോംപാക്ട് രൂപത്തിൽ എഴുതിയിരിക്കുന്നു n ∞cneinx തുടർന്ന് cn ഇന്റഗ്രൽ നൽകും അതിനാൽ നമ്മൾക്കു ഇപ്പോൾ രണ്ട് ഗുണകങ്ങളില്ല ഒരു ഗുണകം മാത്രമാണ് ഉദ്ദേശ്യം നിറവേറ്റുന്നത് അതിനാൽ നമുക്ക് ഇത് പൊതുവായ രൂപത്തിൽ എഴുതാം പൊതുവായ അർത്ഥത്തിൽ നമുക്ക് L മുതൽ L വരെയുള്ള ഇടവേള ഉള്ളപ്പോൾ ഉദാഹരണത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും അതിനാൽ ഈ ഫൊറിയർ ശ്രേണിയിൽ f ഫംഗ്ഷൻ എഴുതാം f ∼ n ∞cneinπxL ഇതിൽ einx ന് പകരം നമുക്ക് einπxL പതിവുപോലെ ഈ പൊതുവായ ഫോമിനായി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കൂടാതെ cn 12L LLfxe inπxLdx π എന്നതിനുപകരം നമുക്ക് ഇപ്പോൾ L ഉണ്ടാകും നമ്മൾക്കു L ഉണ്ട് −L മുതൽ L വരെ f ലേക്ക് വീണ്ടും ഇവിടെ ചെറിയ മാറ്റം ഉണ്ടാകും −inx ന് പകരം നമ്മൾക്കു -inπxL ഉണ്ട് കൂടാതെ L π ആയിരിക്കുമ്പോൾ ഇത് സാധാരണ ഫോമിലേക്ക് കുറയ്ക്കും അതിനാൽ അതാണ് എപ്പോഴും നമുക്ക് ഉള്ളത് അതിനാൽ ഇവിടെ n 0 മുതൽ ± ∞ വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് പൊതുവായ രൂപമാണ് നമ്മൾ ഉടൻ തന്നെ ഒരു ഉദാഹരണത്തിൽ ഇത് ഉപയോഗിക്കും അതിനാൽ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഉദാഹരണത്തിന് f ex എന്ന ഫംഗ്ഷന്റെ ഈ സങ്കീർണ്ണമായ ഫോറിയർ ശ്രേണി −πxπ കൂടാതെ ഇത് ആനുകാലികമാണ് അതിനാൽ നമുക്ക് f x2πf എന്ന് പറയാം ശരി നമ്മൾക്ക് ഇതിനകം അറിയാം ഫൊറിയർ സീരീസിന്റെ സങ്കീർണ്ണ രൂപം ഈ പദം ഇവിടെ നൽകിയിരിക്കുന്നു f ∼ ∞cneinx cn നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്കു ഫോർമുലയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ cn കണക്കാക്കണമെങ്കിൽ അത് 12π πexe inxdx തുടർന്ന് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകൾ ഇവിടെ e1−¿x ആയി ലയിപ്പിക്കുന്നു അതിനാൽ ഇവിടെ ഒരു നേട്ടമുണ്ട് ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായി നമ്മൾ കോംപ്ലക്സ് സീരിസ് എഴുതുകയാണെങ്കിൽ cn ന്റെ വിലയിരുത്തൽ എളുപ്പമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ എക്സ്പോണൻഷ്യൽ ഉണ്ട് നമ്മൾക്ക് വീണ്ടും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ എക്സ്പോണൻഷ്യൽ അവിടെ ചേർത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് e1−¿x ഉണ്ട് തുടർന്ന് നമുക്ക് ഇത് എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ ആ കോസും സൈനും ഉള്ളതിനേക്കാൾ ഇത് വളരെ എളുപ്പമാണ് തുടർന്ന് ans ഉം bns കംപ്യൂട്ട് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ e1−¿ x ന്റെ അവിഭാജ്യവും എളുപ്പമാണ് അതിനാൽ നമ്മൾക്ക് e 1−¿ x1−¿ ഉണ്ട് ഈ x −π മുതൽ π വരെ വ്യത്യാസപ്പെടും കാരണം താഴ്ന്ന പരിധി −π ഉം ഉയർന്ന പരിധി π ഉം ആണ് അതിനാൽ ഇവിടെ വീണ്ടും നമ്മൾക്ക് 12π 1−¿ ഉണ്ട് ഇവിടെ നമ്മൾ x ന് പകരം π കൊടുത്തു അതിനാൽ നമ്മൾക്ക് eπ e inx ഉണ്ട് തുടർന്ന് −π ഇവിടെ നമ്മൾക്ക് e π e inx ഉണ്ട് ഇപ്പോൾ ചിഹ്നത്തോടുകൂടിയതാണ് കാരണം x എന്നത് -π ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ചിഹ്നമുള്ള einx ഉണ്ട് രണ്ട് കേസുകളിലും നമ്മൾ കാണും കൂടാതെ einx എന്നത് cosnπisin nπ ന് തുല്യമാണ് അതിനാൽ ഇവിടെയാണെങ്കിൽ അത് e±inπ അതിനാൽ ഇവിടെയും ഇത് cosnπ ± isin nπ sin nπ 0 cosnπ−1n അതിനാൽ einx അല്ലെങ്കിൽ ആകട്ടെ അത് −1n അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇവിടെ നമുക്ക് −1n ഉണ്ട് ഈ സ്ഥലത്തും നമുക്ക് −1n ഉണ്ട് അത് ഇപ്പോൾ നമുക്ക് സാധാരണമായി എടുക്കാം പിന്നെ നമുക്ക് eπ -e π2 ഉണ്ട് ഇത് sinhπ എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ നിർവചനം അനുസരിച്ച് sinhπ eπ -e π2 ആണ് Cosh നു നമ്മൾക്ക് ഇവിടെ ചിഹ്നം ഉണ്ട് അതിനാൽ eπ -e π2 എന്നത് sinhπ ഉപയോഗിച്ച് മാറ്റി −1n എന്നത് e±inπ ആണ് പിന്നെ നമ്മൾ ഇവിടെ 1¿ കൊണ്ട് ഗുണിക്കുകയും 1¿ കൊണ്ട് ഹരിക്കുകയും ചെയ്തു തുടർന്ന് നമുക്ക് 11¿1−¿ 11−i2 n2 അതായത് 11n2 കൂടാതെ നമുക്ക് −1n 1¿ ഉണ്ട് എന്നിട്ട് നമുക്ക് ന്യൂമെറേറ്ററിൽ sinhππ ഉം ഉണ്ട് അതിനാൽ നമുക്ക് ഫൊറിയർ സീരീസിലെ കോഫിഫിഷ്യന്റ് cn മാറ്റിസ്ഥാപിക്കാം പിന്നെ sinhπ ഉം π ഉം സ്ഥിരമായ പദങ്ങൾ ആയതിനാൽ അവ സംഗ്രഹത്തിന് പുറത്താണ് അപ്പോൾ നമുക്ക് sin hπ n ∞ 1n1¿1n2einx ഉണ്ട് അതിനാൽ ഈ ഫോറിയർ സീരിസിന്റെ ഫലമായി ഈ ഫോറിയർ സീരീസ് സങ്കീർണ്ണമായ രൂപത്തിൽ എഴുതുന്നത് ചിലപ്പോൾ ഫൊറിയർ കോഫിഫിഷ്യന്റുകൾ കണക്കുകൂട്ടുന്നത് ലളിതമാണ് ഉദാഹരണത്തിന് ഈ ഫോമിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ മറ്റ് മേഖലകളിലും നിയന്ത്രണ സിദ്ധാന്തത്തിൽ നേരിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം ഉണ്ട് അവിടെ f x നുള്ള സങ്കീർണ്ണമായ ഫോറിയർ ശ്രേണി പ്രാതിനിധ്യം നിർണ്ണയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് l x l ൽ നിർവചിക്കപ്പെടുന്നു വീണ്ടും ഇത് 2l ആനുകാലികമാണ് അതിനാൽ ഇപ്പോൾ വീണ്ടും ഒരേ കാര്യം ചെയ്യുന്നു ഞങ്ങൾക്ക് cn ഉണ്ട് തുടർന്ന് നമ്മൾ ഫോറിയർ സീരീസ് സങ്കീർണ്ണമായ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് കൂടുതൽ പൊതുവായ ഫോർമുലയാണ് അതിനാൽ നമ്മൾക്ക് ഈ ഫോറിയർ സീരീസ് ഉണ്ട് f ∼n ∞cneinπxl അപ്പോൾ നമുക്ക് cn 12l llfxe inπxldx കണക്കാക്കാം അതിനാൽ നമ്മൾക്ക് 12l ഉണ്ട് അത് ഇതിനകം അവിടെയുണ്ട് f എന്നത് x ഉപയോഗിച്ച് മാറ്റി പകരം e inπxl തുടർന്ന് നമുക്ക് അതിനെ വീണ്ടും ഭാഗങ്ങളായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമ്മൾക്ക് 12l ഉണ്ട് തുടർന്ന് x എന്നത് പോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ സംയോജനം e inπxl ഈ ഘടകം 1−inπl കൂടാതെ അത് ഇവിടെ വിപരീതമാണ് അതിനാൽ നമ്മൾക്ക് -linπ ഉണ്ട് അതുപോലെ x ന്റെ വ്യത്യാസം 1 ആയിരിക്കും വീണ്ടും ഈ ഇന്റഗ്രേറ്റ് ഈ ഘടകവുമായി വരും -linπ അതിനാൽ അത് ഇവിടെ ആയിത്തീർന്നു അപ്പോൾ നമുക്ക് lle inπxl dx അതിനാൽ നമ്മൾ ഇവിടെ ഒരിക്കൽ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നമുക്ക് മുന്നോട്ട് പോകാം അതിനാൽ ഇത് ആദ്യ പദമാണ് അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ടേം ഉണ്ട് ആദ്യ ടേമിൽ നമ്മൾ ആദ്യം l പകരം വയ്ക്കണം അതിനാൽ നമ്മൾക്ക് l ഉണ്ട് പിന്നെ ഇവിടെ മറ്റൊരു l ഉണ്ട് അതിനാൽ l×ll2 ഇവിടെ മൈനസ് ചിഹ്നം ഉള്ളതിനാൽ നമുക്ക് inπ ഉം എക്സ്പോണൻഷ്യൽ e−inπ ഉം ഉണ്ട് കാരണം നമ്മൾ x ന്റെ പോസിറ്റീവ് മൂല്യം മാറ്റിസ്ഥാപിക്കുമ്പോൾ ഇത് ഈ l ഉപയോഗിച്ച് l റദ്ദാക്കപ്പെടും പിന്നെ നമുക്ക് −l പകരം വയ്ക്കണം വീണ്ടും അതേ കാര്യം x −l ആയിരിക്കും അവിടെ ഒരു ഇതിനകം ഉണ്ട് അതിനാൽ അടയാളം ഉണ്ടാകും പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ inπ einπ ഉം ഉണ്ട് ഇവിടെ വീണ്ടും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ e inπxl സമന്വയിപ്പിക്കുക തുടർന്ന് ഘടകം -linπ ഉണ്ടാകും അതിന്റെ ഫലമായി ഇത് ഇപ്പോൾ ഒരു സ്ക്വയർ ആയി മാറിയിരിക്കുന്നു വീണ്ടും നമ്മൾ l മുതൽ പ്ലസ് l വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ഈ പദം 0 ആണ് ഇവിടത്തെ വസ്തുത എന്തെന്നാൽ നമ്മൾ അവിടെ l വെച്ചാൽ നമുക്ക് e−inπ ഉം -l നൊപ്പം ഇപ്പോൾ einπ ഉം ഉണ്ട് കാരണം ഈ l അതിനെ ആക്കും അതിനാൽ നമ്മൾക്ക് ഈ രണ്ട് പദങ്ങളുണ്ട് ആദ്യത്തേത് −1n ആണ് രണ്ടാമത്തേത് −1n ഒരേ കാര്യം പക്ഷേ ചിഹ്നത്തോടെ അതിനാൽ ഇത് റദ്ദാക്കപ്പെടുന്നു അതിനാൽ നമ്മൾക്ക് 0 എന്ന മൂല്യം ഉണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യത്തേത് ലളിതമാക്കാം അതിനാൽ നമ്മൾക്ക് 12l ഉണ്ട് ഈ l ഉപയോഗിച്ച് l റദ്ദാക്കപ്പെടും നമുക്ക് i കൊണ്ട് ഗുണിക്കുകയും വിഭജിക്കുകയും ചെയ്യാം അതിനാൽ നമുക്ക് -i2 ലഭിക്കും രണ്ട് ടെംസും പോസിറ്റീവായിത്തീരും i അവിടെയുണ്ട് നമ്മൾക്ക് ഈ l ഉണ്ട് e−inπ അല്ലെങ്കിൽ einπ രണ്ടും −1n ആണ് അതിനാൽ നമുക്ക് ഈ കോഫിഫിഷ്യന്റ് cn വളരെ കോംപാക്ട് രൂപത്തിൽ ഇവിടെയുണ്ട് −1nilnπ ഇവിടെ n ±1± 2 etc അതിനാൽ ഇവിടെ നമുക്ക് c0 പ്രത്യേകം കണക്കാക്കാം കാരണം ഈ പ്രയോഗം 0 ന് തുല്യമായ n ന് സാധുതയുള്ളതല്ല അതിനാൽ c0 12l llfxdx കൂടാതെ x ഒരു ഓട് പ്രവർത്തനമാണ് അതിനാൽ −l മുതൽ l വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആയിരിക്കും അതിനാൽ നമുക്ക് c0 ആയി 0 ഉണ്ട് ഒടുവിൽ നമുക്ക് f ∼ ilπn ∞ 1nneinπxlഎഴുതാം

ഇപ്പോൾ നമ്മൾ മുൻ ലെക്ചറിൽ ഇതിനകം ചർച്ച ചെയ്ത പാർസെവൽ ഐഡന്റിറ്റിയിലേക്ക് പോകും അതിനാൽ ഇത്തവണ പാർസെവൽ ഐഡന്റിറ്റി ഫൊറിയർ സീരീസിന്റെ സങ്കീർണ്ണ രൂപത്തിലാണ് കാരണം ഇപ്പോൾ ഫൊറിയർ സീരീസിൽ നമ്മൾക്ക് cn ഉണ്ട് മുമ്പ് നമ്മൾക്ക് ans bns ആയിരുന്നു അതിനാൽ സ്വാഭാവികമായും പാർസെവൽ ഐഡന്റിറ്റി ഇപ്പോൾ ans ന്റെയും bns ന്റെയും സ്ഥാനത്ത് cn അടിസ്ഥാനമാക്കി മാറ്റും അതിനാൽ ഈ സാഹചര്യത്തിൽ പാർസെവൽ ഐഡന്റിറ്റി ഇനിപ്പറയുന്ന ഫോം എടുക്കുന്നു നമ്മൾക്ക് 12π πfx2dxn∞cn2ഉണ്ട്സമാന പദം 12π πfx2dx ഇടതുവശത്ത് ഉണ്ട് എന്നാൽ വലതുവശത്ത് ലളിതമായ ഒരു ഫോം n ∞cn2 ഉണ്ട് അതും സമ്പൂർണ്ണ മൂല്യത്തോടെ അതിനാൽ ഇപ്പോൾ അതിന്റെ പരിഹാരം ഈ ഫോം എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും കാരണം മുൻ പ്രഭാഷണത്തിൽ നിന്ന് പാർസെവൽ ഐഡന്റിറ്റിയുടെ രൂപം നമുക്കറിയാം അത് a022n1an2bn21 πfx2dx an2 ന് മുകളിൽ ഒരു സംഗ്രഹം ഉണ്ടായിരുന്നു bn2 എന്നതിന് ഒരു പദം ഉണ്ടായിരുന്നു 1 πfx2dx അതിനാൽ ഇത് പാർസേവലിന്റെ ഐഡന്റിറ്റി ആയിരുന്നു അതിന്റെ ഫോറിയർ സീരീസിന്റെ സാധാരണ രൂപത്തിനായി നമ്മൾ ചർച്ച ചെയ്തു പുതിയ ഫൊറിയർ കോഫിഫിഷ്യന്റ് cn എങ്ങനെയെന്ന് ഇപ്പോൾ നമുക്കറിയാം പഴയവയുമായി ബന്ധപ്പെട്ടത് അതിന്റെ സഹായത്തോടെ നമുക്ക് ഈ പാർസേവലിന്റെ ഐഡന്റിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ഈ ഫോം അതിനാൽ അത് ഓർക്കുക c0a02 ഉം cn12 ഉം c n ഉം 12anibn ആയിരുന്നു അതിനാൽ നമ്മൾ ഈ പുതിയ നൊട്ടേഷനുകൾ cn c n എന്നിവ ഉപയോഗിക്കുമ്പോൾ അതായിരുന്നു ബന്ധം അതിനാൽ cn ന്റെ മോഡുലസ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ cn എന്നത് ഒരു കോംപ്ലക്സ് സംഖ്യയാണ് അപ്പോൾ |cn|2 an2bn24ആയിരിക്കും അതിനാൽ ഇത് 14 an2bn2 ആണ് ഇവിടെയും അതുതന്നെ സംഭവിക്കും c n ന് ഒരേ മോഡുലസ് സ്ക്വയർ ഉണ്ടാകും കാരണം c n ലെ ഒരേയൊരു വ്യത്യാസം നമുക്ക് അവിടെ ഉണ്ട് എന്നാൽ മോഡുലസിൽ അത് പ്രശ്നമല്ല അതിനാൽ വീണ്ടും c n |c n|2 14 an2 bn2 ആയിരിക്കും ഇവിടെ |cn|2 14 an2 bn2 കൂടാതെ |c n|2എന്നിവയും ഒന്നുതന്നെയാണ് പാർസെവൽ ഐഡന്റിറ്റിയുടെ ഈ പരമ്പരാഗത രൂപം നമ്മുടെ കൈയിലുണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് cns ന്റെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാം ആദ്യ പദം a022ആണ് ഇത് a024 ആണ് അതിനാൽ നമ്മൾ ഇവിടെ ഇരുവശത്തും 2 കൊണ്ട് വിഭജിച്ചു അല്ലെങ്കിൽ മുഴുവൻ സീരിസും 12 കൊണ്ട് ഗുണിച്ചു അതിനാൽ ഇവിടെ 2 വരും പിന്നെ ഇവിടെ 12 വരും തുടർന്ന് ഇവിടെയും 2π വരും അതിനാൽ ഇത് ഇതുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു ഇവിടെ ആദ്യ പദം a024 ആണ് ഇപ്പോൾ 12 an2 bn2 എന്ന് എഴുതിയിരിക്കുന്നു14 an2 bn2 14 an2 bn2 ഇത് 12 an2 bn2 ആണ് വലതുവശത്തും f ¿ ¿ ¿ 12 π π¿ എന്നിട്ട് നമുക്ക് സീരിസുണ്ട് അതിനാൽ 12എന്നത് 14 14 എന്ന് എഴുതിയിരിക്കുന്നു പിന്നെ ബാക്കി n1an2bn2 അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് 14n1an2bn2 തുടർന്ന് വീണ്ടും നമുക്ക് 14n1an2bn2 ഇവിടെയുണ്ട് അതിനാൽ ഇത് കൃത്യമായി c02 ആണ് കാരണം c0 a02 ആയിരുന്നു അതിനാൽ ഇവിടെ നമുക്ക് c02 ഉണ്ട് an2 bn24 എന്നത് |cn|2 ആണെന്ന് നമുക്ക് ഇതിനകം അറിയാം പിന്നെ രണ്ടാമത്തേതിന് കാരണം നമ്മൾ ഇതിനകം തന്നെ അതിനെ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് |c n|2 ഉണ്ട് അതിനാൽ നമ്മൾ n1 cn2 പരിഗണിച്ചു എന്നിട്ട് നമുക്ക് വലതുവശത്ത് ഉള്ളത് പോലെ 12π πfx2dx ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇടത് വശത്തുള്ള എല്ലാ പദങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്യാം നമ്മൾക്ക് ¿ c02 2∨¿ ഉണ്ട് നമ്മൾക്ക് ¿c12∨∨c22∨¿ മുതലായവയുടെ പോസിറ്റീവ് പവർ ഉണ്ട് ¿ c2 1 ∨∨c2 2 | മുതലായ എല്ലാ നെഗറ്റീവ് പവറും നമുക്കുണ്ട് അതിനാൽ ഇവയെല്ലാം ഇപ്പോൾ കൂട്ടിച്ചേർക്കാനാകും കൂടാതെ നമുക്ക് മുഴുവൻ സംഗ്രഹവും ഉണ്ട് n ∞c n2 അത് ∞മുതൽ ∞ ഓവർ |cn|2 വരെയാണ് വലതു വശം 12π πfx2dx അതിനാൽ ഫൊറിയർ സീരീസിന്റെ സങ്കീർണ്ണ രൂപത്തിനായുള്ള പാർസെവൽ ഐഡന്റിറ്റിയാണിത് അതിനാൽ അടുത്ത സ്ലൈഡിലെ ഒരു ഉദാഹരണത്തിൽ നമുക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ് അതിനാൽ ഇതാണ് ഉദാഹരണം ഫോറിയർ സീരീസ് ex ന്റെ sinhππn ∞ 1n1¿1n2einx അതിനാൽ അത് മുൻപു നൽകിയ ex ന്റെ ഫൊറിയർ സീരീസാണ് സംഗ്രഹത്തിന്റെ ഈ മൂല്യം ഇവിടെ കുറയ്ക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ∞1n21 ഇവിടെ n −∞ മുതൽ ∞ വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ തന്നിരിക്കുന്ന സീരിസിൽ നിന്ന് നമുക്കുള്ളത് നമുക്ക് ഇപ്പോൾ താരതമ്യം ചെയ്യാം അതിനാൽ cns കൾ നേരിട്ട് അവിടെ നൽകുന്നു ഇവയാണ് cns കൾ −1n e e π2 1¿1n2 നമുക്ക് sinhπ ഉണ്ട് e e π2 പിന്നെ ഒരു π ഉണ്ടായിരുന്നു അതിനാൽ നമ്മൾക്ക് 2π ഉണ്ട് കൂടാതെ 1¿ ഉണ്ട് നമ്മൾക്ക് 1n2 ഉണ്ട് n 0 മുതൽ ± 1 ± 2 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ¿cn∨¿ ആവശ്യമാണ് കാരണം ഇത് പാർസേവലിന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾക്ക് ആവശ്യമാണ് അതിനാൽ നമുക്ക് അത് നേടാം തുടർന്ന് അതിന്റെ സ്ക്വയർ അതിനാൽ നമ്മൾക്ക് അവിടെ പോസിറ്റീവ് പദമുണ്ട് eπ−e π2 കൂടാതെ 4π2 ഉണ്ടാകും തുടർന്ന് 1n22 ഇതിനായി നമുക്ക് 1n2മോഡുലസ് ഉണ്ട് ഇത് 1¿ ന്റെ മോഡുലസ് ആണ് കാരണം മറ്റെല്ലാം യഥാർത്ഥ സംഖ്യകൾ മാത്രമാണ് അവ വെറും സ്ക്വയർ മാത്രമായിരിക്കും എന്നാൽ ¿1¿∨¿1n2 ആയിരിക്കും അതിനാൽ നമ്മൾ ഇതിനകം ഇവിടെ നൽകിയിട്ടുള്ള മോഡുലസ് Cn സ്ക്വയർ തയ്യാറാണ് cn2e e π24211n2 തുടർന്ന് ഇത് ഫൊറിയർ സീരീസിന്റെ കോംപ്ലക്സ് രൂപത്തിനായുള്ള പാർസെവൽ ഐഡന്റിറ്റി ആണ് കൂടാതെ നമ്മുടെ ഫങ്ക്ഷൻ ex ആണ് അതിനാൽ നമ്മൾ ഫോറിയർ സീരീസിന്റെ മറുവശം കണക്കാക്കും അത് 12π πfx2dx ആണ് അതിനാൽ നമുക്ക് 12π πe2xdx ഉണ്ട് കൂടാതെ ഇവിടെ എഴുതിയത്e2π e 2π 4π കാരണം ഇന്റഗ്രൽ e2x2 ആയിരിക്കും എന്നിട്ട് നമ്മൾ π പിന്നെ −π എന്നിവ മാറ്റിസ്ഥാപിച്ചു അതിനാൽ പാർസെവൽ ഐഡന്റിറ്റിയുടെ Parseval's identity മറുവശത്ത് നമ്മൾക്ക് e2π e 2π4π ഉണ്ട് അതിനാൽ ഈ അവിഭാജ്യ വശത്ത് ഞങ്ങൾക്ക് ഈ മൂല്യമുണ്ട് തുടർന്ന് |cn|2 ഇതിനകം നമ്മോടൊപ്പമുണ്ട് അതിനാൽ നമ്മൾക്ക് e e π42 ∞11n2 സംഗ്രഹം കൃത്യമായി 11n2 മുകളിലാണ് അതുകൊണ്ട് ∞1n21മൂല്യം നമ്മൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത് ഇപ്പോൾ നൽകാം അതിനാൽ ഇവിടെ ഇടതുവശത്ത് നമുക്ക് ഈ പദം eπ −e −π eπ e −π എന്ന് എഴുതാം a2 -b2 ഫോർമുല അതിനാൽ ഒരു ടെം eπ−e−π റദ്ദാക്കപ്പെടും അതിനാൽ ഡിവിഷനിൽ നമുക്ക് eπ−e−π ഉണ്ട് സംഖ്യയിൽ നമ്മൾക്ക് eπ e−π ഉണ്ട് തുടർന്ന് ഈ റദ്ദാക്കൽ കാരണം ഒരു π ഉം ഉണ്ട് അതിനാൽ തന്നിരിക്കുന്ന സീരിസിന്റെആകെത്തുകയായി നമ്മൾക്ക് കൃത്യമായി πee πe e π ഉണ്ട് ∞11n2 എന്നത് π യുടെ രീതിയിൽ കൂടുതൽ എഴുതാം cothπ എന്നത് ഇവിടെ കൃത്യമായി ee πe e π ആണ് അതിനാൽ ഈ ലെക്ച്ചർ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റെഫെറെൻസുകളാണിവ കൂടാതെ ഇപ്പോൾ ഉപസംഹാരമായി ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ചചെയ്തത് ഫൊറിയർ സീരിസിന്റെ കോംപ്ലക്സ് രൂപമാണ് ഈ ഫൊറിയർ കോഫിഫിഷ്യന്റും എക്സ്പോണൻഷ്യൽ പദമായ e inπxL ഉള്ള പൊതുവായ രൂപമാണിത് അവിഭാജ്യ ഘടകമായ 12π LLfxe inπxLdx ന്റെ സഹായത്തോടെയാണ് ഫൊറിയർ ഗുണകങ്ങൾ കണക്കാക്കുന്നത് ഇപ്പോൾ n 0 ± 1 ± 2 എന്നിങ്ങനെ വ്യത്യാസപ്പെടാം പാർസെവലിന്റെ ഐഡന്റിറ്റിയും ഒരു സീരിസിന്റെ തുക കണക്കുകൂട്ടുന്നതിനുള്ള ഉപയോഗവും നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ പാർസേവലിന്റെ ഐഡന്റിറ്റി അനുസരിച്ച് സമ്പൂർണ്ണ മൂല്യത്തിന്റെ ഈ സ്ക്വയറുകളുടെ ആകെത്തുക അല്ലെങ്കിൽ cn ന്റെ മോഡുലസ് നമുക്ക് ഉണ്ട് ഈ തുക ഇടത് വശത്ത് −∞ മുതൽ ∞ വരെയും വലതുവശത്ത് 12π πfx2dx ഉം ഉണ്ട് അതിനാൽ ഇത്രയും ആണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത് കൂടാതെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു